അവസാന ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡഗ്ഡേൽ മോഡലിന്റെ പ്രചോദനം എന്താണ് എന്നതാണ് നമുക്ക് ഹ്രസ്വമായി അത് പരിശോധിച്ചിട്ടു കൂടുതൽ മുന്നോട്ട് പോകാം ഇലാസ്റ്റിക് വിശകലനം ക്രാക്ക് ടിപ്പിൽ സിംഗുലാർ സ്ട്രെസ്സുകൾ പ്രവചിക്കുന്നു അത് യാഥാർത്ഥ്യമല്ല അത്തരമൊരു യാഥാർത്ഥ്യമല്ലാത്ത പ്രവചനം ഇല്ലാതാക്കാൻ ഉള്ള ശ്രമത്തിൽ1960ൽ ഡഗ്ഡെയ്ലും 1962 ൽ ബാരൻബ്ലാറ്റും ക്രാക്ക് ടിപ്പിൽ നിന്ന് വ്യാപാരിക്കുന്ന യിൽഡ്ഡ് അല്ലെങ്കിൽ കോഹെസിവ് സ്ട്രിപ്പ് സോണിനെ സ്വതന്ത്രമായി അവതരിപ്പിച്ചു അതിനാൽ ഇതെല്ലാം മോഡലുകളാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് വളരെ സങ്കീർണ്ണമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനാൽ ഏത് വഴിയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അവർ നിർദ്ദേശിക്കുന്നു ക്രാക്ക് ടിപ്പിന് മുമ്പായി വരാനിരിക്കുന്ന ഫ്രാക്ചർ സർഫേസുകൾ തുറക്കുന്നത് ഒരു കോഹെസിവ് സ്ട്രെസ് എതിർക്കുന്നു ഡഗ്ഡേൽ എന്താണ് ചെയ്തത് മെറ്റീരിയലിന്റെ യിൽഡ് സ്ട്രെസ്സായി ഡഗ്ഡേൽ ആ സ്ട്രെസ്സിനെ കണക്കാക്കി അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഒരു അനുമാനമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അനുമാനം സ്വീകരിച്ച് മോഡലുമായി മുന്നോട്ട് പോയി കോഹെസിവ് സോൺ ലെങ്ത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ഘട്ടം ഇത് എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു സ്ട്രെസ്സുകൾ നോൺ സിംഗുലാർ ആകുന്ന അവസ്ഥയാൽ ആണ് ഇത് നിർണ്ണയിക്കപ്പെടുന്നത് നിങ്ങൾ ഗണിതശാസ്ത്ര വികസനം നോക്കുമ്പോൾ ഈ പ്രസ്താവന വളരെ വ്യക്തമാകും നിങ്ങൾക്ക് ഡഗ്ഡെയ്ലിന്റേയും ബാരൻബ്ലാറ്റിന്റേയും സമീപനം തമ്മിൽ സാമ്യതകളുണ്ടെന്നു വ്യക്തമായകാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഗവേഷകരെ ബാരൻബ്ലാറ്റ് ഡഗ്ഡേൽ ക്രാക്ക് തിയറി എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഇവയ്ക്ക് വ്യത്യസ്തമായ ഭൌതിക അടിത്തറയുണ്ടെന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ഇതെല്ലാം നമ്മൾ അവസാന ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതിന് മാത്രമാണ് മാക്രോസ്കോപ്പിക്ക് പ്ലാസ്റ്റിറ്റിയാണ് ഡഗ്ഡെയ്ൽ മോഡലിന്റെ ഭൌതിക അടിസ്ഥാനം മറുവശത്ത് ബാരൻബ്ലാറ്റ് സിദ്ധാന്തം മോളിക്യൂലർ കോഹെഷൻ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഡഗ്ഡെയ്ലിന്റെ സമീപനത്തിന്റെ ഗണിതശാസ്ത്ര വികസനം നമ്മൾ ഇപ്പോൾ ഏറ്റെടുക്കും നിങ്ങൾ ഇവയുടെ ഭംഗിയുള്ള രേഖാചിത്രങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് ഒന്ന് ക്രാക്കിന്റെ ഐഡിയലൈസേഷൻ ആണ് മറ്റൊന്ന് യഥാർത്ഥ ക്രാക്കിന്റെ പ്ലാസ്റ്റിക് സോൺ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് അതിനാൽ നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് 2a നീളമുള്ള ഒരു ക്രാക്ക് ഉണ്ട് പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തി ഡെൽറ്റയായി ചിത്രീകരിച്ചിരിക്കുന്നു പരീക്ഷണാത്മക ഫലം നമുക്ക് തന്നെ കാണാനും ഇത്തരത്തിലുള്ള യഥാർത്ഥ പരീക്ഷണങ്ങളുടെ ഫലം കണ്ടു സ്വയം ബോധ്യപ്പെടുകയും ചെയ്യാം ഇതുപോലുള്ള ഒരു ചിത്രം ഗണിതശാസ്ത്ര വിശകലനത്തിനായി എടുക്കുന്നു ഡഗ്ഡെയ്ലിന്റെ സമീപനം നേർത്ത പ്ലേറ്റുകൾക്ക് അനുയോജ്യമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ഇതാണ് ഒന്നാം നമ്പർ നിയന്ത്രണം മെറ്റീരിയലുകൾ ട്രെസ്ക യിൽഡ് മാനദണ്ഡത്തോടു പ്രതികരിക്കുന്നുവെന്നും സിദ്ധാന്തം അനുമാനിക്കുന്നു അതിനാൽ ആ മെറ്റീരിയലുകൾക്ക്മാത്രം ഫലങ്ങൾ കൃത്യമായിരിക്കും ഡഗ്ഡെയ്ൽ മറ്റൊരു ധാരണയുണ്ടാക്കി ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി എന്താണെന്ന് നമ്മൾ നേരത്തെ പരിശോധിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം ക്രാക്ക് ടിപ്പിന് മുന്നിൽ ഒരു പരിമിത രൂപം നമ്മൾ കണ്ടു ഡഗ്ഡെയ്ലിന്റെ മാതൃകയെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒരു വരിയിൽ കേന്ദ്രീകരിക്കുന്നുവെന്ന് അദ്ദേഹം അനുമാനിച്ചു നോക്കൂ ഇത് മറ്റ് രണ്ട് അനുമാനങ്ങളുമായി ചേർന്ന് പോകുന്നു നിങ്ങൾക്ക് നേർത്ത പ്ലേറ്റ് ഉള്ളപ്പോഴും മെറ്റീരിയൽ ട്രെസ്ക യിൽഡ് മാനദണ്ഡത്തോട് പ്രതികരിക്കുമ്പോഴും ഇതും സാധുവാണ് വാസ്തവത്തിൽ ഡഗ്ഡേൽ ഫലങ്ങൾ റിപ്പോർട്ടു ചെയ്തപ്പോൾ ആളുകൾ അത് ഉടനടി സ്വീകരിച്ചില്ലെന്ന് നമുക്ക് പിന്നീട് കാണാം ഹാനിന്റെയും റോസെൻഫെൽഡിന്റെയും പരീക്ഷണ ഫലത്തിനായി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു അതും നമുക്കു കാണാം നമുക്ക് പ്ലാസ്റ്റിക് രൂപഭേദം ഒരു വരിയിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ മോഡലിനെ സ്ട്രിപ്പ് യിൽഡ് മോഡൽ എന്നു വിളിക്കാം അതിനാൽ നിങ്ങൾക്കുള്ളത് പ്ലാസ്റ്റിക് സോണിന്റെ വിപുലീകരണം ആണ് ആ ദൂരം ഡെൽറ്റയായി നൽകിയിരിക്കുന്നു ഡെൽറ്റയുടെ നീളത്തിന്റെ വിപുലീകരണം എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് നോക്കാം കൂടാതെ ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് സ്ട്രിപ്പിൽ ഒരു സെന്റർ ക്രാക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള ക്രാക്ക് ലെങ്ത് 2a ആണ് ഈ പ്ലാസ്റ്റിക്ക് ഡിഫോർമേഷൻ വരുത്തിയ സോണിനായി സ്ട്രെസ് ലെവൽ സിഗ്മ ys ആയി കണക്കാക്കുന്നു ഇതാണ് മോഡൽ വികസനത്തിന് ഡഗ്ഡേൽ നൽകിയ അനുമാനം ഇപ്പോൾ ഇഫക്ടിവ് ക്രാക്ക് ലെങ്ത് എന്താകും ഇത് a പ്ലസ് ഡെൽറ്റയായി നമ്മൾ നേരത്തെ നടത്തിയ ചർച്ചയിൽ നിന്ന് K സിഗ്മയും K ഡെൽറ്റയും പൂജ്യത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇൻഫൈനൈറ്റ് സ്ട്രിപ്പിൽ ഒരു സെന്റർ ക്രാക്ക് ഉണ്ട് പ്രയോഗിച്ച സ്ട്രെസ് സിഗ്മ കാരണം നിങ്ങൾ ഒരു സിംഗുലാരിറ്റി വികസിപ്പിച്ചെടുക്കും ഡഗ്ഡേൽ അനുമാനിക്കുന്നത് ക്രാക്ക് ടിപ്പിനു മുമ്പായി ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും ബന്ധപ്പെട്ട സ്ട്രെസ് ലെവൽ മെറ്റീരിയലിന്റെ യിൽഡ് സ്ട്രെങ്ത് ആയി അദ്ദേഹം എടുത്തിരുന്നു അത് സിഗ്മ ys ഇത് സ്ട്രെസ് സിംഗുലാരിറ്റിയും അവതരിപ്പിക്കും അത്തരമൊരു രീതിയിൽ ലെങ്ത് ഡെൽറ്റ കണ്ടെത്തേണ്ടതുണ്ട് ഇവ രണ്ടിന്റെയും സംഗ്രഹം പൂജ്യത്തിലേക്ക് പോകുന്നു എന്താണ് K സിഗ്മ K സിഗ്മ എന്നത് സ്ക്വയർ റൂട്ട് ഓഫ് പൈ ഗുണം a പ്ലസ് ഡെൽറ്റ ഡെൽറ്റ വിദൂരമായി ക്രാക്ക് ലെങ്ത്ന്റെ സാങ്കൽപ്പിക വ്യാപ്തി നമ്മൾ എടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ K സിഗ്മ കണക്കാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ K ഡെൽറ്റയാണ് സമ്മർദ്ദം മൂലമുള്ള ഏകത്വം സിഗ്മ ys നോക്കൂ പ്രായോഗിക സമ്മർദ്ദം കാരണമുള്ള സിംഗുലാരിറ്റി വളരെ ലളിതമായ രീതിയിലാണ് നൽകിയിരിക്കുന്നത് സിഗ്മ ys ന്റെ സാന്നിധ്യത്തിൽ സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ എങ്ങനെ വിലയിരുത്താമെന്നതിന് നിങ്ങൾക്ക് ഇവിടെ ചില സാമ്യത കണ്ടെത്താൻ കഴിയുമോ ക്രാക്ക് ഫേയിസെസ് സിമെട്രികെലി ലോഡ് ചെയ്തു നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും വാസ്തവത്തിൽ ക്രാക്ക് സർഫേസിൽ ഒരു സിമെട്രികെലി കോൺസെൻട്രേറ്റഡ് ലോഡിനായി നമ്മൾ സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ വിലയിരുത്തി വാസ്തവത്തിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഒരു എക്സ്പ്രഷൻ എഴുതാനും കഴിയും ഇവിടെയുള്ള വ്യത്യാസം നിങ്ങൾക്കുള്ള ഡിസ്ട്രിബ്യുറ്റെഡ് ലോഡിംഗ് ആണ് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണ് നോക്കിയത് അതിനാൽ എനിക്ക് ക്രാക്ക്ന്റെ മധ്യഭാഗത്തു നിന്ന് s ദൂരം എടുത്തതിനു ശേഷം ഇൻഗ്രിമെൻറ്ൽ ദൂരം ds നോക്കാം ദയവായി ഈ ഗ്രാഫിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കുക ക്രാക്ക് സ്ട്രെസ്സുകളാൽ ലോഡ് ചെയ്തിരിക്കുന്നു എനിക്ക് ഒരേസമയം ലോഡിന്റെ മറ്റൊരു സ്ട്രിപ്പായ ദൂരെയുള്ള നെഗറ്റീവ് എക്സ് ആക്സിസിനെയും നോക്കാൻ കഴിയും നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് നമ്മൾ dK ഡെൽറ്റ എന്നെഴുതും സിമെട്രിക്ക് ലോഡിനു വേണ്ടി വികസിപ്പിച്ചെടുത്ത എക്സ്പ്രഷനുകൾ നമുക്ക് ഓർത്തെടുക്കാം അതിനെ സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടറിന്റെ ഇൻക്രിമെന്റൽ മൂല്യം ആയി എഴുതാം നിങ്ങൾ പ്രയോഗിച്ച ലോഡ് സിഗ്മ ys ന്റെ വ്യാപ്തിക്കായി സംയോജിപ്പിക്കുക നിങ്ങൾക്ക് സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ കണക്കാക്കാൻ കഴിയും അതിനാൽ ഒരു സിമെട്രിക്ക് വെഡ്ജ് ലോഡിനുള്ള സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടറിന്റെ രൂപം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് നീളത്തിൽ P ലോഡ് ഉണ്ട് നിങ്ങൾക്ക് ഇത് 2 ബൈ പൈ P ഗുണം റൂട്ട് ഓഫ് പൈ a ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് s സ്ക്വയർ അതിനാൽ എനിക്ക് ഇത് അടിസ്ഥാനമാക്കി നിലവിലെ പ്രശ്നത്തിലെ സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടറിന്റെ ഇൻഗ്രിമെൻറ്ൽ മൂല്യം എഴുതാനും കഴിയും അതിനാൽ നിങ്ങൾക്കു dK ഡെൽറ്റ എന്നത് മൈനസ് 2 ബൈ പൈ ആണ് ആ എക്സ്പ്രെഷൻ ക്രാക്ക് സർഫേസ് വലിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോഡിനായിരുന്നു ഇവിടെ ലോഡ് ക്രാക്ക് സർഫേസിനെ അടയ്ക്കാൻ ശ്രമിക്കുന്നു അതിനാൽ എനിക്ക് ഇവിടെ ഒരു മൈനസ് ചിഹ്നമുണ്ട് അതിനാൽ സ്ട്രെസ് ലെവൽ അറിയാം ഇത് സിഗ്മ ys എന്നും ഇൻക്രിമെന്റൽ ഡിസ്റ്റൻസ് ds എന്നും നൽകിയിരിക്കുന്നു അതിനാൽ സിഗ്മ ys ds ലോഡ് P യെയും റൂട്ട് പൈ a യെയും സൂചിപ്പിക്കുന്നു പൈ a എന്നതിനെ പൈ ഗുണം a പ്ലസ് ഡെൽറ്റ ആയി എടുക്കുന്നു നിങ്ങൾ ഇതിനെ സ്ക്വയർ റൂട്ട് ഓഫ് a പ്ലസ് ഡെൽറ്റ സ്ക്വയർ മൈനസ് s സ്ക്വയർ കൊണ്ട് ഹരിക്കുന്നു ബാക്കിയുള്ളവ ലളിതമായ ഗണിതശാസ്ത്രമാണ് നിങ്ങൾക്കറിയാമോ നമ്മൾ അത്തരം അളവുകളുടെ ഇന്റഗ്രേഷൻ കൈകാര്യം ചെയ്തു വരുന്നു നമ്മൾക്ക് ആ പദപ്രയോഗങ്ങൾ ലഭിക്കും അതിനാൽ എനിക്ക് ഇവിടെയുള്ളത് ഇത് K ഡെൽറ്റ മൈനസ് 2 സിഗ്മ ys ഗുണം പൈ ഗുണം a പ്ലസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ പൈക്ക് തുല്യമാണ് നിങ്ങൾ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് a പ്ലസ് ഡെൽറ്റ സ്ക്വായെർഡ് മൈനസ് s സ്ക്വായെർഡ് ഗുണം ds നെ a മുതൽ a പ്ലസ് ഡെൽറ്റ വരെ ഉള്ള ലിമിറ്റുകളിൽ ഇൻടെഗ്രേറ്റ് ചെയ്യുക അത്തരം എക്സ്പ്രെഷൻസ് നമ്മൾ നേരത്തെ പരിഹരിച്ചതായി നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുറിപ്പുകൾ കുറച്ച് പേജുകൾ പിന്നോട്ട് നോക്കിയാൽ ഇന്റഗ്രേറ്റഡ് വാല്യൂ എന്തായിരിക്കുമെന്ന് കാണാം നിങ്ങൾ പ്രധാനമായും ഇന്റഗ്രലുകളുടെ പട്ടികയാണ് ഉപയോഗിക്കുന്നത് അതിനാൽ ഇന്റഗ്രേറ്റഡ് വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനുശേഷം ലിമിറ്റുകൾ പ്രയോഗിക്കുക വാസ്തവത്തിൽ ഞാൻ ആ ഘട്ടം ഒഴിവാക്കാൻ പോകുന്നു ഞാൻ ലിമിറ്റുകൾ പ്രയോഗിച്ച് ഫൈനൽ എക്സ്പ്രെഷൻ എഴുതാം നിങ്ങൾ ഈ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടറിന്റെ വിലയിരുത്തൽ ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ഇത് നേരത്തെ കണ്ടു അതിനാൽ നിങ്ങൾക്ക് കുറിപ്പുകളുടെ ആ ഭാഗം ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ലിമിറ്റുകൾ ഇടുന്നതിനുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കുകയാണ് ലിമിറ്റ് നിശ്ചയിച്ചതിനുശേഷം എനിക്ക് ലഭിക്കുന്ന എക്സ്പ്രെഷൻ എന്തുതന്നെയായാലും അതിനെ കോസ് ഇൻവേർസ് a ബൈ a പ്ലസ് ഡെൽറ്റ ആയി ലളിതമാക്കാൻ കഴിയും ഇതിനെ മൈനസ് 2 സിഗ്മ ys സ്ക്വയർ റൂട്ട് ഓഫ് പൈ a പ്ലസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ പൈ കൊണ്ട് പ്രീ ഗുണിതം ചെയ്യുന്നു അതിനാൽ നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ നമ്മുടെ അറിവ് ഉപയോഗിച്ചു ക്രാക്ക് ഫെയ്സിൽ പ്രവർത്തിക്കുന്ന ഒരു സിമെട്രിക്ക് ലോഡിന്റെ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ വിപുലീകരിച്ചു ക്രാക്ക് ടിപ്പിന്റെ ഇരുവശത്തും സിഗ്മ ys ഉള്ളപ്പോൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്തായിരിക്കുമെന്ന് കണ്ടെത്തി നമ്മൾക്ക് k ഡെൽറ്റയുടെ എക്സ്പ്രഷൻ ലഭിച്ചു അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ എഴുതേണ്ട എക്സ്പ്രെഷൻ k സിഗ്മ പ്ലസ് k ഡെൽറ്റ എന്നത് പൂജ്യത്തിനു തുല്യമാണ് എന്നാണ് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനാൽ എനിക്ക് ഇവിടെയുള്ളത് സിഗ്മ സ്ക്വയർ റൂട്ട് പൈയുടെ പൈ a പ്ലസ് ഡെൽറ്റ ഇതാണ് K സിഗ്മയുടെ എക്സ്പ്രഷൻ ഇത് നമ്മൾ അടുത്തിടെ കാൽക്കുലേറ്റ് ചെയ്ത് k ഡെൽറ്റയുടെ എക്സ്പ്രഷനാണ് അതാണ്മൈനസ് 2 സിഗ്മ ys പൈയുടെ സ്ക്വയർ റൂട്ട് പ്ലസ് ഡെൽറ്റയെ പൈ കൊണ്ട് ഹരിച്ചാൽ കോസ് ഇൻവേർസ് a ബൈ a പ്ലസ് ഡെൽറ്റ കൊണ്ട് ഗുണിക്കുന്നത് 0 ന് തുല്യമാണ് നോക്കൂ എക്സ്പ്രഷനുകളുടെ വികാസത്തിൽ തന്നെ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് നോക്കൂ നമ്മൾ ഇർവിന്റെ മോഡൽ Irwin's model വികസിപ്പിച്ചെടുത്തത് നിങ്ങൾ എങ്ങനെയെന്ന് നോക്കിയോ നമുക്ക് ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ട് പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് rp ആയി നൽകിയിരുന്നു എന്നാൽ ക്രാക്ക് ലെങ്തിന്റെ പരിഷ്ക്കരിക്കുന്നതിനുള്ള ഡെൽറ്റയുടെ മൂല്യം rp യുടെ പകുതിയായി കണക്കാക്കുന്നു അത് ഡെൽറ്റയായി എടുത്തു എന്നാൽ ഇവിടെ വികസനത്തിൽ തന്നെ എല്ലായ്പ്പോഴും പ്ലാസ്റ്റിക് സോണിന്റെ കംപ്ലീറ്റ് ലെങ്ത് നമ്മൾ ക്രാക്ക് ലെങ്തിന്റെ ആവശ്യമായ തിരുത്തലിനായി എടുക്കുന്നു ഡഗ്ഡെയ്ലിന്റെ ടെവലപ്പ്മെൻറ്റിന്റെ Dugdale's development ഓരോ ഘട്ടത്തിലും ഇത് കാണപ്പെടുന്നു അതിനാൽ ഇതിന്റെ ഒരു നോട്ട് സൂക്ഷിക്കുക അതിനാൽ അടുത്ത സിംപ്ലിഫിക്കേഷൻ ഞാൻ പൈ a പ്ലസ് ഡെൽറ്റയുടെ സ്ക്വയർ റൂട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എക്സ്പ്രഷൻ സിഗ്മ മൈനസ് 2 സിഗ്മ ys ഡിവൈഡഡ് ബൈ പൈ ഗുണം കോസ് ഇൻവേർസ് a ബൈ a പ്ലസ് ഡെൽറ്റ പൂജ്യത്തിന് തുല്യം ആയി കിട്ടുന്നു ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഡെൽറ്റ എന്ന എക്സ്പ്രെഷൻ ഉപയോഗിച്ച് ക്രാക്ക് ലെങ്ത് കറക്റ്റ് ചെയ്യുന്നു അതിനാൽ അവസാനമായി പ്ലാസ്റ്റിക് സോൺ ലെങ്തും ക്രാക്ക് ലെങ്തിനു ആവശ്യമായ കറക്ഷനും നോക്കുമ്പോൾ ഡഗ്ഡെയ്ലിന്റെ മോഡലിലും Dugdale's model ഇർവിന്റെ മോഡലിലും Irwin's model നമ്മൾ ഇത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം രണ്ടും തമ്മിൽ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് എനിക്ക് ഇത് വലതുവശത്തേക്ക് കൊണ്ടുപോകാം എനിക്ക് ഇത് മാറ്റാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി എനിക്ക് സിഗ്മ മൈനസ് 2 സിഗ്മ ys ഡിവൈഡഡ് ബൈ പൈ ഗുണം കോസ് ഇൻവേർസ് a ബൈ a പ്ലസ് ഡെൽറ്റ പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ ഡെൽറ്റയ്ക്ക് ഒരു എക്സ്പ്രഷൻ ലഭിക്കാൻ ഇത് എന്നെ സഹായിക്കും നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് നോക്കാം അതിനാൽ എനിക്ക് a ബൈ a പ്ലസ് ഡെൽറ്റ ലഭിക്കുന്നു ലളിതവൽക്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വലതുവശത്ത് എടുക്കാം നിങ്ങൾക്ക് ഇത് പൈ സിഗ്മ 2 സിഗ്മ ys ആയി ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് a ബൈ a പ്ലസ് ഡെൽറ്റയെ കോസ് ഓഫ് പൈ സിഗ്മ ഡിവൈഡഡ് ബൈ 2 സിഗ്മ ys എന്നാണ് ലഭിക്കുന്നത് നമുക്ക് ഇത് കൂടുതൽ സോൾവ് ചെയ്യേണ്ടതുണ്ട് നോക്കൂ നമുക്ക് ഇതുപോലുള്ള ഒരു എക്സ്പ്രെഷൻ ഉണ്ടാകുമ്പോഴെല്ലാം എഞ്ചിനീയർമാരെന്ന നിലയിൽ ചില അപ്പ്രോക്സിമേഷനുകൾ കൊണ്ടുവരണം ചില അപ്പ്രോക്സിമേഷൻസ് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലളിതമായ ഒരു എക്സ്പ്രെഷൻ ലഭിക്കൂ അപ്പോൾ നമ്മൾ എന്ത് അപ്പ്രോക്സിമേഷൻ ചെയ്യും മിക്ക ഫ്രാക്ച്ചർ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് സിഗ്മയും സിഗ്മ ys സും പ്രത്യക്ഷപ്പെടുമ്പോൾ സിഗ്മയുടെ മൂല്യം മെറ്റീരിയലിന്റെ യിൽഡ് സ്ട്രെങ്തിന്റെ മൂല്യത്തേക്കാൾ വളരെ കുറവായിരിക്കും നോക്കൂ അതായിരുന്നു വിഷമം യിൽഡ് സ്ട്രെങ്തിന്റെ മൂല്യത്തേക്കാൾ വളരെ താഴെയുള്ള സ്ട്രെസ്സുളിൽ സ്ട്രക്ചേർഴ്സ് പരാജയപ്പെട്ടു അതിനാൽ എനിക്ക് ഇത്തരത്തിലുള്ള അഭ്യർത്ഥന നടത്താം സിഗ്മ എന്നത് സിഗ്മ ys നെ ക്കാൾ വളരെ താഴെയാണ് എന്ന് ലളിതവൽക്കരിക്കാൻ കഴിയും കൂടാതെ പ്ലാസ്റ്റിക് സോണിന്റെ എക്സ്ടെൻഷൻ ക്രാക്ക് ലെങ്ങ്തിനെ അപേക്ഷിച്ചു വളരെ ചെറുതാണ് എന്ന മറ്റൊരു നിരീക്ഷണം നടത്താം നിങ്ങൾക്കറിയാമോ ഇവ വളരെ പ്രധാനപ്പെട്ടവയാണ് നിങ്ങൾ ഇതുപോലുള്ള അപ്പ്രോക്സിമേഷനുകൾ നൽകുമ്പോൾ മാത്രമേ നമുക്ക് ലളിതമാക്കാനും കൂടുതൽ മുന്നോട്ട് പോകാനും കഴിയൂ അതിനാൽ നിങ്ങളുടെ പക്കലുള്ളത് 1 മൈനസ് ഡെൽറ്റ ബൈ a ഈക്വൽ ടു 1 മൈനസ് പൈ സ്ക്വായെർഡ് സിഗ്മ സ്ക്വായെർഡ് ഡിവൈഡഡ് ബൈ 8 സിഗ്മ സ്ക്വായെർഡ് ys അതിനാൽ ഇതിൽ നിന്ന് ഡെൽറ്റയുടെ എക്സ്പ്രെഷൻ എന്താണെന്ന് എനിക്ക് കണക്കാക്കാൻ കഴിയും ഡെൽറ്റ എന്നത് പൈ സിഗ്മ സ്ക്വയേർഡ് പൈ a ഡിവൈഡഡ് ബൈ 8 സിഗ്മ സ്ക്വായെർഡ് ys ആയി മാറുന്നു ഞങ്ങൾ ഇൻഫൈനൈറ്റ് പ്ലേറ്റിൽ ഒരു സെന്റർ ക്രാക്ക് കൈകാര്യം ചെയ്യുന്നതിനാൽ എനിക്ക് ഇത് പൈ ബൈ 8 KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വായെർഡ് എന്ന് ഒരുമിച്ച് എഴുതാം വാസ്തവത്തിൽ പ്ലാസ്റ്റിക് സോൺ ലെങ്തുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലെംസിലും നമുക്ക് KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വായെർഡ് എന്ന എക്സ്പ്രെഷൻ ഉണ്ടാകും ഇത് ഒരു ഘടകത്താൽ മുൻകൂട്ടി ഗുണിക്കും ഇവിടെ ഘടകം പൈ ബൈ 8 ആണ് നമുക്ക് ഈ അളവുകളുടെ ഒരു സമ്മറിയും ഉണ്ടാകും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം സിംപ്ലിസ്റ്റിക് മോഡൽ ഇർവിന്റെ മോഡൽirwin's model ഡഗ്ഡെയ്ലിന്റെ മോഡൽ എന്നിവയിൽ നിന്ന് നമുക്ക് എന്ത് തരത്തിലുള്ള താരതമ്യങ്ങൾ ചെയ്യാനാകും നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡഗ്ഡേൽ തന്റെ മോഡൽ വികസിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സോൺ ലെങ്തിന്റെ വ്യാപ്തി ലഭിച്ചു വാസ്തവത്തിൽ തന്റെ യഥാർത്ഥ പ്രബന്ധത്തിൽ പ്ലാസ്റ്റിക് സോണിന്റെ ഈ വ്യാപ്തിയുടെ മൂല്യം ചില പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പ്രവചിച്ചതിൽ നിന്നും അദ്ദേഹം താരതമ്യപ്പെടുത്തി ഇത് നന്നായി പൊരുത്തപ്പെട്ടു പക്ഷേ അദ്ദേഹം ചെയ്യാത്തത് അദ്ദേത്തിന്റെ നിരീക്ഷണങ്ങൾക്ക് ചിത്രപരമായ പിന്തുണ അദ്ദേഹം നൽകിയിരുന്നില്ല എന്നതാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഡഗ്ഡേൽ തന്റെ പ്ലാസ്റ്റിക് സോൺ സൈസിനെക്കുറിച്ചുള്ള പ്രവചനം ഷീറ്റുകളിലെ എക്സ്പിരിമെന്റിലൂടെ പരിശോധിച്ചു അതിനാൽഅദ്ദേഹം ഇന്റെർനലും എഡ്ജ് ക്രാക്കും ഉള്ള തിൻ സ്പെസിമെൻസിലും പ്രവർത്തിക്കുകയായിരുന്നു താരതമ്യം വളരെ മികച്ചതായിരുന്നു കാരണം ഇത് ഒരു മോഡൽ മാത്രമാണ് നോക്കൂ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം ചാർട്ട് ചെയ്യുന്നു നിങ്ങൾ അതിനെ ആദർശവൽക്കരിക്കേണ്ടതുണ്ട്ഇത് തുടരുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമായ ഫലങ്ങൾ അനുയോജ്യമായി ലഭിക്കും അതിനാൽ ഒരു സ്ട്രിപ്പിന്റെ രൂപത്തിൽ ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹത്തിന് പരീക്ഷണങ്ങൾ അടിസ്ഥാനമാക്കി ഉള്ള പ്രവചനം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു ഡഗ്ഡേൽ തന്റെ ക്ലാസിക് പേപ്പറിൽ ചിത്രപരമായ തെളിവുകൾ നൽകാത്തതിനാൽ യിൽഡിങ് ഈ രീതിയിൽ സംഭവിക്കുമോ എന്ന് ആളുകൾ സംശയിച്ചു അതിനാൽ ഈ വർക്ക് ഉടനടി സ്വീകരിച്ചില്ല നോക്കൂ നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് ക്രാക്ക് ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി അപ്പ്രോക്സിമേറ്റിലി ആണോയെന്ന് അറിയാൻ നമ്മൾ ഒരു സർക്കസ് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു മോഡ് III സാഹചര്യത്തിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് സോൺ ഒരു സർക്കിൾ പോലെയാണ് മറ്റെല്ലാ സാഹചര്യങ്ങളിലും ഇതിന് മറ്റു ചില ആകൃതിയുണ്ട് നിങ്ങൾക്ക് തിൻ പ്ലേറ്റിന്റെ കാര്യത്തിൽ ഇത് ഒരു സ്ട്രിപ്പായി ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്നോ നിങ്ങൾക്കറിയാമോ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ആളുകൾ സംശയിച്ചു അദ്ദേഹത്തിന്റെ സമീപനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വാസ്തവത്തിൽ അദ്ദേഹം പേപ്പറിൽ ഉദ്ധരിച്ച പരീക്ഷണാത്മകവും സൈദ്ധാന്തികവുമായ പ്രവചന ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ താരതമ്യം വളരെ മികച്ചതായിരുന്നു അദ്ദേഹം പിക്ടോറിയൽ റെപ്രെസെൻറ്റേഷൻ നൽകിയിരുന്നില്ല 1965 ൽ ഹാനും റോസെൻഫീൽഡും ചേർന്നാണ് ചിത്ര തെളിവുകൾ ചെയ്തത് ആളുകൾ അതിനു ശേഷം വിശ്വസിക്കാൻ തുടങ്ങി അതെ പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് വിലയിരുത്തുന്നതിനുള്ള ഒരു വ്യാലിഡ് ആയ സമീപനമാണ് ഡഗ്ഡെയ്ലിന്റെ മോഡൽ എന്ന് നിങ്ങൾക്കറിയാമോ ഇത് വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികളെപ്പോലെ നിങ്ങൾക്ക് സംശയം തോന്നുന്നന്നു അതുപോലെ ശാസ്ത്രജ്ഞർക്കും ആ ദിവസങ്ങളിൽ സംശയങ്ങൾ തോന്നിയിരുന്നു അതിനാൽ ഇത് പരീക്ഷണങ്ങളിലൂടെ പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു അതിനാൽ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന സിദ്ധാന്തം എന്തുതന്നെയായാലും പ്രവചനങ്ങളെ പരീക്ഷണാത്മക നിരീക്ഷണത്തിലൂടെ തെളിയിക്കേണ്ടതുണ്ട് അതിനു ശേഷം മാത്രമേ സൈദ്ധാന്തിക സമീപനം അതിന്റെ മുഖമൂല്യത്തിൽ എടുക്കാൻ കഴിയൂ ഇത് വളരെ പ്രധാനമാണ് ഹാനിന്റെയും റോസൻഫീൽഡിന്റെയും പരീക്ഷണാത്മക പ്രവർത്തനം അപ്പോൾ ഹാനിന്റെയും റോസൻഫീൽഡിന്റെയും പരീക്ഷണാത്മക പ്രവർത്തനം എന്താണ് ഡഗ്ഡെയ്ലിന്റെ മാതൃക പ്രകാരം പ്ലാസ്റ്റിക് സോണിന്റെ എക്സിസ്റ്റൻസ് അവർ പ്രകടമാക്കി അവർ എന്തു ചെയ്തു എന്നു വെച്ചാൽ 3 ശതമാനം സിലിക്കൺ ഉപയോഗിച്ചുള്ള സ്റ്റീൽ സ്പെസിമെൻ ഉപയോഗിച്ചു ടെസ്റ്റ് പീസുകളുടെ ഉപരിതലം പോളിഷ് ചെയ്യുകയും ഇച്ച് ചെയ്യുകയും ചെയ്തു ഈ ഇച്ചിങ് ഒരു പ്രത്യേക പ്രക്രിയയാണ് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി വെളിപ്പെടുത്താൻ ഇത് സഹായിച്ചു എന്നാൽ അടിസ്ഥാനപരമായി അവർ മെറ്റലുറജിസ്റ്സ് ആയിരുന്നു അവർ നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതിനാൽ ഇത് ഒരു ക്രാക്ക് പ്രോബ്ലെത്തിനായി ഉപയോഗിക്കാം ഇച്ചിങ്ങിന്റെ രീതി ഇന്റിവിജ്വൽ ഡിസ് ലൊക്കേഷണൽ പ്രിഫറൻഷിയൽ അറ്റാക്കിനെ ഉറപ്പാക്കി അതിനാൽ പ്ലാസ്റ്റിക് സോൺ എന്തുതന്നെയായാലുംഅത് ഡിസ് ലൊക്കേഷണൻ പൈൽ അപ്പ് കാരണം ആണ് ഇച്ചിങ് പ്രക്രിയ ഒരു പ്രിഫറൻഷിയൽ അറ്റാക്ക് ഉറപ്പുവരുത്തി ഇത് പ്ലാസ്റ്റിക് സോണിനെ ഏതെങ്കിലും രൂപത്തിൽ വെളിപ്പെടുത്തുന്നു 1 മുതൽ 2 ശതമാനം വരെ സ്ട്രെയിൻ വർദ്ധിക്കുമ്പോൾ ഈ ഇച്ചിങ് കാരണം ഉപരിതലം ക്രമേണ ഇരുണ്ടതായി മാറുന്നു നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ട്രെയിന്റെ പശ്ചാത്തലത്തിൽ 1 മുതൽ 2 ശതമാനം എന്നുള്ളത് വളരെ വളരെ ഉയർന്നതാണ് കാരണം നിങ്ങൾ മെറ്റീരിയൽ ടെസ്റ്റിംഗ് നോക്കുമ്പോൾ യിൽഡ് സ്ട്രെങ്ത് കുത്തനെ സൂക്ഷ്മമായി നിർവ്വചിക്കാത്തപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓഫ്സെറ്റ് സ്ട്രെയിൻ നിങ്ങൾ അത് 0 2 ശതമാനം ഓഫ്സെറ്റായി എടുക്കുന്നു അതിനാൽ മെറ്റീരിയൽ യിൽഡ് ആക്കാൻ 0 2 ശതമാനം തന്നെ മതിയാകും അതിനാൽ നിങ്ങൾക്ക് 1 മുതൽ 2 ശതമാനം വരെ ഉള്ളപ്പോൾ മെറ്റീരിയൽ തീർച്ചയായും പ്ലാസ്റ്റിക്കലി ഡിഫോർമിഡ് ആയി രണ്ട് ശതമാനം സ്ട്രെയിനിനപ്പുറം ഇച്ചിങ്ങിന്റെ റെസ്പോൺസ് കുറഞ്ഞു 5 ശതമാനത്തിന് മുകളിലുള്ള സ്ട്രെയിനിനു ആക്രമണമൊന്നുമില്ല പരീക്ഷണം എങ്ങനെ നടത്തി എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ചില വിശദാംശങ്ങൾ ഇവയാണ് ഇവിടെ നമുക്ക് എന്താണു പ്രധാനം എന്നു വെച്ചാൽ ഇച്ചിങ് പ്രക്രിയ നടക്കുമ്പോൾ പ്രിഫറൻഷ്യൽ അറ്റാക്ക് കാരണം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സോണിന്റെ ഷെയിപ്പ് ലഭിക്കുന്നതായിരിക്കും അതാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി പരീക്ഷണത്തിൽ സ്വീകരിച്ച ഒരു പ്രത്യേക നടപടിക്രമത്തിലൂടെ നേടാൻ കഴിയും അങ്ങനെ ഇച്ചിങ് സാങ്കേതികത പ്ലാസ്റ്റിക് സോണിന്റെ വ്യാപ്തിയും ഒരു പരിധിവരെ സോണിനുള്ളിലെ സ്ട്രെയിന്റെ വിതരണവും വെളിപ്പെടുത്തി 1 മുതൽ 2 ശതമാനം വരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് നന്നായി ചെയ്യാൻ കഴിയും അഞ്ച് ശതമാനത്തിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല അതിനാൽ സ്ട്രെയിന്റെ തോത് എന്താണെന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ചില ക്രൂഡ് മൂല്യങ്ങൾ ലഭിക്കും ആകാരം വളരെ രസകരമാണ് സ്ട്രെയിന്റെ തോത് ഒരു അധിക വിവരമാണ് ഇത് അസംസ്കൃതമാണെങ്കിലും അത്തരം ചില അധിക ഡാറ്റ ഇത് നൽകുന്നു വിവിധ ആഴങ്ങളിൽ ഉള്ള പ്ലാസ്റ്റിക് സോൺ വെളിപ്പെടുത്തുന്നതിന് അവർ ചെയ്തത് ഈ സ്പെസിമെൻ വിവിധ ആഴങ്ങളിലേക്ക് റീഗ്രൌണ്ട് ചെയ്തു പോളിഷ് ചെയ്യുകയും വീണ്ടും ഇച്ച് ചെയ്യുകയും ചെയ്തു അതിനാൽ നിങ്ങൾക്കുള്ള വഴി എന്നു വെച്ചാൽ സ്പെസിമെൻ ഷീറ്റിന്റെ തിക്നെസിനു കുറുകെ പ്ലാസ്റ്റിക് സോൺ കോൺസ്റ്റന്റ് ആയി ഇരിക്കുമോ എന്നതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടതു ഇതെല്ലാം ആണ് കാരണം നമ്മൾ കാണാൻ പോകുന്നത് പ്ലാസ്റ്റിക് സോൺ തിക്നെസിലുടനീളം എങ്ങനെ മാറുന്നു എന്നതാണ് ക്രാക്ക് വ്യാപിക്കുമ്പോൾ പ്ലാസ്റ്റിക് സോൺ എങ്ങനെ മാറുന്നുവെന്നും നമുക്ക് കാണാം രണ്ടും നമ്മൾ നോക്കേണ്ടതുണ്ട് അതിനാൽ ഹാൻ റോസെൻഫീൽഡ് എന്നിവരുടെ പരീക്ഷണാത്മക രീതി എന്തുതന്നെയായാലും സ്പെസിമെന്റെ ഉപരിതലത്തിൽ മാത്രമല്ല വിവിധ ആഴങ്ങളിലും നിങ്ങൾ പ്ലാസ്റ്റിക് സോണിനെ കാണുന്നു നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നേട്ടമുണ്ട് നിങ്ങൾക്ക് ഒരു സാമ്പിളിന്റെ ഉപരിതലത്തിന്റെയും മധ്യഭാഗത്തിന്റെയും പ്ലാസ്റ്റിക് സോൺ ആകൃതിയുടെ ഒരു സാമ്പിൾ ഉണ്ട് അത് ഇനിപ്പറയുന്ന രീതിയിൽ നൽകിയിരിക്കുന്നു ഉപരിതലത്തിൽ പ്ലാസ്റ്റിക് സോൺ ഇതുപോലെയാണ് ഒരു മധ്യഭാഗത്ത് പ്ലാസ്റ്റിക് സോൺ ഇതുപോലെയാണ് നോക്കൂ ഇത് വളരെ വലുതാക്കിയ ചിത്രമാണ് എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഒരു ലൈനായി പരിഗണിക്കാം അതിനാൽ ഇത് ഒരു ഉപരിതലത്തിൽ സംഭവിക്കുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇവയെല്ലാം നിങ്ങൾക്കാവശ്യമുള്ള വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് അത്തരമൊരു പ്ലാസ്റ്റിക് സോൺ കണ്ടതിനുശേഷം മാത്രമാണ് ആളുകൾ ഡഗ്ഡെയ്ലിന്റെ മോഡൽ Dugdale's model വിശ്വസിച്ചത് അതിനാൽ ആ കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കുക ഇത് ഉപരിതലത്തിൽ സംഭവിക്കുന്നു കുറച്ച് സ്ലൈഡുകൾക്കു ശേഷം നമുക്ക് ഇതിന് മതിയായ സമയം ചെലവഴിക്കാം അതിനാൽ ഒരു വൃത്തിയുള്ള സ്കെച്ച് ഉണ്ടാക്കുക അതിനാൽ ഇത് ഹാൻ റോസെൻഫെൽഡ് എന്നിവരിൽ നിന്നുള്ളതാണ് ആക്റ്റാ മെറ്റലർജിക്കയിൽ പ്രസിദ്ധീകരിച്ച പ്ലെയിൻ സ്ട്രെസിന് കീഴിൽ ഒരു ക്രാക്കിന്റെ ലോക്കൽ യിൽഡിങും എക്സ്ടെൻഷനും എന്നിവയെക്കുറിച്ചുള്ള പ്രബന്ധത്തിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിഡ് സെക്ഷൻ പ്ലാസ്റ്റിക് സോൺ ഡഗ്ഡെയ്ലിന്റെ മോഡൽ പ്രവചിച്ച പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതിയോട് സാമ്യമുള്ളതാണ് അതിനാൽ ഡഗ്ഡെയ്ലിന്റെ മോഡൽ സാധുവായ ഒരു സമീപനമായി അംഗീകരിക്കുന്നതിന് ഇത് ഒരു ആശ്വാസം നൽകി ശരിക്കും പ്ലാസ്റ്റിക് സോൺ കണ്ടെത്തുന്നതിന്റെ പ്രയോജനം എന്താണ് നോക്കൂ നമ്മൾ നേരത്തെ SSY അപ്പ്രോക്സിമേഷൻ നോക്കിയപ്പോൾ ഇതു കണ്ടു എഫക്റ്റീവ് ക്രാക്ക് ലെങ്ത് എന്നത് എ പ്ലസ് ഡഗ്ഡെയ്ൽ മോഡലിന്റെ Dugdale's model പ്ലാസ്റ്റിക് സോൺ വ്യാപ്തി ആയി നിങ്ങൾ എടുക്കണം ഇർവിന്റെ മോഡലിന്റെ Irwin's model കാര്യത്തിൽ അത് എ പ്ലസ് പ്ലാസ്റ്റിക് സോണിന്റെ പകുതിയായിരുന്നു അതാണ് നമ്മൾ നോക്കിയത് റിസൾട്ടിങ് സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ എന്താണെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് ഉപയോഗപ്രദമായ വിവരമായിരിക്കും കാരണം ഉയർന്ന ശക്തിയുള്ള ബ്രിട്ടിൽ അലോയ്കളിൽ നിന്ന് പ്ലാസ്റ്റിക് സോണിന്റെ ചില ചെറിയ ട്രെയിസുകൾ ഉള്ള അല്ലോയ്കളെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അവയ്ക്ക് സൂചനകളും ഉണ്ട് നിങ്ങൾക്ക് അതിൽ ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കാൻ കഴിയും അതിനാൽ ക്രാക്ക് ദൈർഘ്യം പരിഷ്ക്കരിക്കുന്നതിനുള്ള വഴി നിങ്ങൾക്ക് ലളിതമായി ലഭിക്കും സ്ലൈഡ് സമയം കാണുക 3006 പ്ലാസ്റ്റിക് സോൺ ലെങ്തും പ്ലാസ്റ്റിക് സോൺ ലെങ്തിന്റെ തിരുത്തും ഒരു സമ്മറി ഞങ്ങൾ സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ കാൽകുലേഷനുകളിലേക്ക് കടക്കുന്നതിനു മുൻപ് വിവിധ രീതികൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് സോൺ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് നോക്കാം നമുക്ക് ഏതു വിധത്തിൽ പ്ലെയിൻ സ്ട്രെസ്സിന്റെ ഫലങ്ങളും പ്ലെയിൻ സ്ട്രെയ്നിന്റെ ഫലങ്ങളും മാറുന്നു എന്നു നോക്കാം ലോഡിന്റെ പുനർവിതരണം പരിഗണിക്കാത്ത ഒരു ലളിതമായ മോഡൽ നിങ്ങൾക്കുണ്ടായിരുന്നു പ്ലാസ്റ്റിക് സോൺ ലെങ്ത് 1 ബൈ 2 പൈ KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയർ ആണ് എന്നാൽ പ്ലെയിൻ സ്ട്രെയ്നിന്റെ കാര്യത്തിൽ ഇതു വളരെ ചെറുതാണ് നിങ്ങൾക്ക് ഇത് 1 ബൈ 18 പൈ KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയർ ആയി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇർവിന്റെ മോഡൽ ഉണ്ട് പ്ലെയിൻ സ്ട്രെസ്സിന് ഇത് 1 ബൈ പൈ KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയർ ആണ് നിങ്ങൾ പ്ലെയിൻ സ്ട്രെയിനിലേക്ക് പോകുമ്പോൾ ഇത് 1 ബൈ 3 പൈ യെ KI കൊണ്ട് ഗുണിച്ച് സിഗ്മ ys ഹോൾ സ്ക്വയർ ആണ് നോക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്നുത് ഫ്രാക്ചറർ റ്റഫ്നെസ്സ് ടെസ്റ്റിംഗിനുള്ള സ്പെസിമെൻ തിക്ക് നെസ്സ് എന്തായിരിക്കണം എന്നതാണ് അത്തരം എക്സ്പ്രെഷനുകളുടെ ഉപയോഗം അവിടെ കാണാം ഒടുവിൽ ഞങ്ങൾ ഡഗ്ഡെയ്ലിന്റെ മോഡൽ കണ്ടു ഇത് ഒരു പ്ലെയിൻ സ്ട്രെസ് സാഹചര്യത്തിന് മാത്രമേ ബാധകമാകൂ എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് തിൻ സ്പെസിമെൻസ് മാത്രമാണ് അദ്ദേഹം എടുത്തിരുന്നത് അടിസ്ഥാനപരമായി തിൻ പ്ലേറ്റുകൾ പ്ലെയിൻ സ്ട്രെയ്നിന്റെ സിറ്റുവേഷനു അദ്ദേഹം പ്ലാസ്റ്റിക് സോൺ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല ഡഗ്ഡെയ്ലിന്റെ മാതൃകയിൽ പ്ലെയിൻ സ്ട്രെസ് പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് എന്നത് KI ബൈ സിഗ്മ ys ഹോൾ സ്ക്വയർ നെ പൈ ബൈ 8 കൊണ്ട് ഗുണിക്കുക ഇർവിന്റെ മാതൃക ഒരു എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനമാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു ഇത് ഒരു ഇലാസ്റ്റിക് വിശകലനമായി നമ്മൾ പറഞ്ഞു ലോഡ് പുനർവിതരണം ചെയ്യുന്നത് അദ്ദേഹം പരിഗണിച്ചിരുന്നു അതേസമയം ഡഗ്ഡേൽ പ്ലാസ്റ്റിക് സോണിന്റെ ഒരു സ്ട്രിപ്പായി കണക്കാക്കി അതു കാരണം ഒരു സിംഗുലാരിറ്റി ഇല്ല ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സോൺ ലെങ്ത് കണക്കാക്കാൻ കഴിഞ്ഞു കൂടാതെ നമുക്ക് ക്രാക്ക് ലെങ്തിന് വരുത്തേണ്ട തിരുത്തൽ എന്താണെന്നും നോക്കാം സിംപ്ലിസ്റ്റിക്ക് മോഡലിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ്സിനു ലെങ്ത് rp ആയി എടുക്കുന്നു പ്ലെയിൻ സ്ട്രെയ്നിനു നമ്മൾ നടത്തിയ കണക്കുകൂട്ടലുകളും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് nyu 1 ബൈ 3 ന് തുല്യമാകുമ്പോൾ നിങ്ങൾ അത് rp ആയി എടുക്കണം നിങ്ങൾ ഇർവിന്റെ മോഡലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ ദൈർഘ്യം rp ബൈ 2 ആയി എടുക്കുന്നു നിങ്ങൾക്കറിയാമോ ഈ അടിസ്ഥാന കാരണത്തിൽ മാത്രം പ്ലാസ്റ്റിക് സോണിന്റെ നീളം കണക്കാക്കാൻ ഇർവിൻ എത്തിയിരുന്നു ഇത് എക്സ്പ്രെഷന്റെ തന്നെ വികസനത്തിൽ ചേർത്തിരിക്കുന്നു അവസാനമായി നിങ്ങൾ ഡഗ്ഡെയ്ലിന്റെ മോഡലിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് സോണിന്റെ മൊത്തം ലെങ്ത് ക്രാക്ക് ലെങ്തിനുള്ള തിരുത്തലായി നിങ്ങൾ എടുക്കുന്നു ആളുകൾ സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവയെല്ലാം സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം വ്യത്യസ്ത സമീപനങ്ങളിലൂടെയാണ് അവർ അത് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ യഥാർത്ഥ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങളുടെ പരീക്ഷണാത്മക നിരീക്ഷണത്തെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ അത് തുടരുക ഇപ്പോൾ ശരിയാക്കിയ ക്രാക്ക് ലെങ്ത് ഉപയോഗിച്ച് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറിന്റെ മൂല്യവും നമ്മൾ മെച്ചപ്പെടുത്തണം നിങ്ങൾക്ക് ചെറിയ അളവിൽ പ്ലാസ്റ്റിക് സോൺ ഉള്ളപ്പോൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നേടുക എന്നതാണ് മുഴുവൻ ആശയവും ഒരു ഇന്റർമീഡിയറ്റ് ഘട്ടം യഥാർത്ഥ ക്രാക്കിന്റെ ലെങ്തിനെക്കാൾ അല്പം ലെങ്ത് ഉള്ള ക്രാക്കായി പരിഗണിക്കുക അതാണ് ഇവിടത്തെ ഭൌതികശാസ്ത്രം പ്ലാസ്റ്റിറ്റി കറക്ക്റ്റഡ് SIF നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സോൺ വലുപ്പം കണക്കിലെടുത്ത് ഇൻഫൈനൈറ്റ് പ്ലേറ്റിനുള്ള സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും KI എന്നത് സിഗ്മ ഗുണം പൈ ഗുണം a പ്ലസ് ഡെൽറ്റ ഹോൾ പവർ ഹാഫ് ആണ് നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡെൽറ്റ K യെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ പ്രശ്നം ലളിതമായതിനാൽ ഞാൻ ഒരു ഐറ്ററേഷൻ ചെയ്യേണ്ടതില്ല KI ക്കായി ഒരു എക്സ്പ്രെഷൻ കണ്ടെത്താൻ എനിക്ക് കഴിയും ഈ പ്രത്യേക ഉദാഹരണത്തിന് ഒരു ക്ലോസ്ഡ് ഫോം എക്സ്പ്രഷൻ സാധ്യമാണ് അതിനാൽ ഇർവിന്റെ മോഡലിൽ നിന്ന് ഡെൽറ്റയുടെ എക്സ്പ്രെഷൻ ഞാൻ സബ്സ്റ്റിട്യൂറ്റ് ചെയ്യും എനിക്ക് ഇത് സിഗ്മ പൈ പവർ ഹാഫ് ഗുണം a പ്ലസ് KI സ്ക്വയർ ഡിവൈഡെഡ് ബൈ 2 പൈ സിഗ്മ സ്ക്വയേർഡ് ys ഹോൾ പവർ 1 ഹാഫ് ഉണ്ട് ഇതിനെ ഇപ്രകാരം കൂടുതൽ ലളിതമാക്കാൻ സിഗ്മ റൂട്ട് പൈ a പ്ലസ് സിഗ്മ റൂട്ട് പൈ KI ഡിവൈഡെഡ് ബൈ റൂട്ട് ഓഫ് 2 ഗുണം റൂട്ട് പൈ സിഗ്മ ys ഇതെല്ലാം ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾ ആണ് കാണുക സ്ലൈഡ് സമയം3547 ഇതിൽ നമുക്ക് ഒടുവിൽ KI ക്കുള്ള പദപ്രയോഗം ഈ രീതിയിൽ ലഭിക്കും KI എന്നത് സിഗ്മ റൂട്ട് ഓഫ് പൈ a ഡിവൈഡെഡ് ബൈ 1 മൈനസ് 1 ബൈ 2 സിഗ്മ ബൈ സിഗ്മ ys ഹോൾ സ്ക്വയേർഡ് ഹോൾ പവർ ഹാഫ് ആണ് ഈ എല്ലാ കണക്കുകൂട്ടലുകളിലും സിഗ്മ ബൈ സിഗ്മ ys അനുപാതം കാണാം അതിനാൽ നമുക്ക് അഭിപ്രായമിടാം സ്ട്രെസ് ലെവലുകൾ സിഗ്മ ys നെക്കാൾ വളരെ താഴെയായിരിക്കുമ്പോൾ കറക്ക്ഷൻ ഏതാണ്ട് നിസാരമാണ് സിഗ്മ സിഗ്മ ys മായി അടുക്കുമ്പോൾ KI യുടെ മൂല്യങ്ങൾ എത്രത്തോളം മാറാമെന്ന് നമുക്ക് കണക്കാക്കാം അതും നമുക്ക് കാണാം സെന്റർ ക്രാക്ക് ഉള്ള ഇൻഫൈനൈറ്റ് പ്ലേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്ലാസ്റ്റിക് സോൺ പരിഗണിക്കുകയാണെങ്കിൽ KI സിഗ്മ റൂട്ട് പൈ a ഒഴികെയുള്ള ഒരു എക്സ്പ്രെഷനായി മാറുന്നു നിങ്ങൾക്ക് ഒരു ഡിനോമിനേറ്റർ ഉണ്ട് അതിന്റെ വാല്യൂ 1 ൽ കുറവായിരിക്കും അതിനാൽ ഈ മൂല്യം ക്രമേണ ഉയർന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കറക്ക്ഷൻ ഒരു ഫൈനൈറ്റ് പ്ലേറ്റിനായും എക്സ്ടെന്റ് ചെയ്യാൻ കഴിയും നിങ്ങൾ ഒരു ഫൈനൈറ്റ് പ്ലേറ്റിലേക്ക് പോകുന്ന നിമിഷം നിങ്ങൾക്ക് ഐറ്ററേഷൻ ഒഴിവാക്കാൻ കഴിയില്ല പൊതുവേഇത് ഐറ്ററേഷനിൽ കൂടിയാണ് നിർണ്ണയിക്കേണ്ടത് വേറെ വഴിയില്ല അതിനാൽ ഞാൻ ഈ പദപ്രയോഗം ഇതുപോലെ എഴുതുന്നു KI എന്നത് സിഗ്മ യെ പൈ a പ്ലസ് ഡെൽറ്റ ഹോൾ പവർ ഹാഫും a പ്ലസ് ഡെൽറ്റയുടെ ഒരു ഫങ്ക്ഷൻ ബൈ w കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ് അതിനാൽ ഐറ്ററേഷൻ നടത്തുമ്പോൾ ഈ ഫങ്ക്ഷൻ മാറും കൂടാതെ ഈ ജോലി ചെയ്യാൻ നിങ്ങൾക്കു ഒരു സോഫ്റ്റ്വെയർ എഴുതാനും കഴിയും അതിനാൽ എനിക്ക് KI എന്നത് സിഗ്മ പൈ പവർ ഹാഫ് നെ a പ്ലസ് KI സ്ക്വായെർഡ് ഡിവൈഡഡ് ബൈ 2 പൈ സിഗ്മ സ്ക്വായെർഡ് ys നിങ്ങൾ അടിസ്ഥാനപരമായി ഇർവിന്റെ ഫലം കണക്കിലെടുത്ത് ഡെൽറ്റയെ മാറ്റിസ്ഥാപിക്കുന്നു എനിക്ക് ഫംഗ്ഷൻ ഉണ്ട് അതിനെ ഇങ്ങനെ തിരുത്തിയെഴുതി a പ്ലസ് KI സ്ക്വായെർഡ് ഡിവൈഡഡ് ബൈ 2 പൈ സിഗ്മ സ്ക്വയേർഡ് ys ഹോൾ ഡിവൈഡഡ് ബൈ w ഐറ്ററേറ്റിവ് ഇവാലുവേഷൻ ആയിട്ടുള്ള സ്റ്റെപ്പ്സ് എന്തൊക്കെയാണ് ഐറ്ററേഷന്റെ ആദ്യ റൌണ്ടിൽ യഥാർത്ഥ ക്രാക്ക് ലെങ്ത് a അടിസ്ഥാനമാക്കി KI വലതുവശത്തു എടുക്കുന്നു KI യുടെ ഇവാല്യൂവേറ്റഡ് വാല്യൂ രണ്ടാം റൌണ്ടിൽ വലതുഭാഗത്ത് നൽകുന്നു ഇത് വളരെ ലളിതമാണ് ഇത് സങ്കീർണ്ണമല്ല ഇത് സ്ട്രൈയിറ്റ് ഫോർവേഡ് ആണ് KI യുടെ തുടർച്ചയായ രണ്ട് മൂല്യങ്ങൾ നിർദ്ദിഷ്ട ശതമാനം വ്യത്യാസത്തിൽ വരുന്നതുവരെ ഐറ്ററേഷൻ ആവർത്തിക്കുക എന്നിട്ട് നിങ്ങൾ നിർത്തുക സ്ലൈഡ് സമയം 3913 നോക്കൂ ഈ ഘട്ടത്തിൽ എന്താണ് പ്രധാനം ക്രാക്ക് ലെങ്തിന്റെ കറക്ക്ഷന്റെ സ്വാധീനം എന്താണ് ഞാൻ ഇതിനകം സൂചിപ്പിച്ചു പ്രയോഗിച്ച സ്ട്രെസ് മെറ്റീരിയലിന്റെ യിൽഡ് സ്ട്രെങ്തിനെക്കാൾ വളരെ താഴെയായിരിക്കുമ്പോൾ പ്ലാസ്റ്റിറ്റി കറക്ക്ഷൻ നേഗ്ളിജിബിൾ ആണ് കാരണം നമ്മൾ എല്ലാ എക്സ്പ്രെഷനുകളിലും സിഗ്മ ബൈ സിഗ്മ ys ന്റെ ഒരു അനുപാതം ദൃശ്യമാകുന്നത് കണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ അറിയേണ്ടത് ഏതു വഴിയിൽ K മാറ്റാൻ കഴിയും അപ്ലൈഡ് സ്ട്രെസ്സിന്റെ മൂല്യം സിഗ്മ ys ന്റെ അടുത്ത് ആണെങ്കിൽ K 40 ശതമാനം പ്ലെയിൻ സ്ട്രെസിനും 10 ശതമാനം പ്ലെയിൻ സ്ട്രെയിനും വർദ്ധിക്കും അതിനാൽ K യുടെ റിലേറ്റീവ് ഇൻക്രീസ് പ്രധാനമാണ് പ്ലെയിൻ സ്ട്രെസിൽ എന്താണ് സംഭവിക്കുന്നത് പ്ലെയിൻ സ്ട്രെയിനിൽ എന്ത് സംഭവിക്കും മറ്റൊരു രീതിയിൽ എഴുതിയ ഡഗ്ഡെയ്ലിന്റെ മോഡലിന്റെ എക്സ്പ്രഷൻ നോക്കുന്നതും മൂല്യവത്താണ് നിങ്ങൾ തിരുത്തിയെഴുതുമ്പോൾ ഇത് പൈ ബൈ 8 നെ 0 393 ആയി എഴുതാം ഇർവിൻ മോഡലിന്റെ കാര്യത്തിൽ എക്സ്റ്റെൻഷനെ പൈ ബൈ KI ഡിവൈഡഡ് ബൈ സിഗ്മ ys ഹോൾ സ്ക്വയറായി എഴുതുന്നു യഥാർത്ഥത്തിൽ ഈ 1 ബൈ പൈ 0 അതിനാൽ നിങ്ങൾ താരതമ്യം ചെയ്താൽ അവ ശരിക്കും വ്യത്യസ്തമല്ല ഒരു രീതിശാസ്ത്രത്തിൽ നിന്ന് ഇർവിൻ പ്രശ്നത്തെ സമീപിച്ചു മറ്റൊരു രീതിശാസ്ത്രത്തിൽ നിന്ന് ഡഗ്ഡേൽ സമീപിച്ചു രണ്ടിനും പരിധിക്കുള്ളിൽ പ്ലാസ്റ്റിക് സോണിന്റെ വിപുലീകരണം ലഭിച്ചതായി തോന്നുന്നു എന്നാൽ ക്രാക്ക് ലെങ്ത് പരിഷ്കരിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്ന രീതി ഇർവിന്റെ മോഡലിലും Irwin's model ഡഗ്ഡെയ്ലിന്റെ മോഡലിലും Dugdale's model അല്പം വ്യത്യസ്തമാണ് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം പ്രശ്നം വളരെ സങ്കീർണ്ണമാണ് ആളുകൾ കൂടുതൽ മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെട്ടിരുന്നു അതിനാൽ അവർ അനുമാനങ്ങൾ ലളിതമാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു ആ കാഴ്ചപ്പാടിൽ ഇർവിന്റെ സംഭാവന വളരെ പ്രാധാന്യമർഹിക്കുന്നു സ്പെസിമെൻ തിക്ക്നെസ്സ്നു അനുബന്ധമായ പ്ലാസ്റ്റിക് സോൺ വേരിയേഷൻ നമ്മൾ എന്താണ് നോക്കുന്നത് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് സോൺ ആകൃതി സ്പെസിമെൻ തിക്ക്നെസ്സ്നു അനുബന്ധമായി എങ്ങനെ വ്യതിചലിക്കുന്നു എന്ന് നോക്കൂ നിങ്ങൾ ഗണിതശാസ്ത്ര വികസനം നോക്കണം കഴിയുന്നത്ര ലളിതമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചു അതിനാൽ നിങ്ങൾ അപ്പ്രോക്സിമേറ്റ് രൂപം വിലയിരുത്തി അപ്പ്രോക്സിമേറ്റ് രൂപം ഒരു പരീക്ഷണത്തിൽ കാണാൻ പോകുന്ന ഒന്നല്ല അത് വ്യത്യസ്ത തിക്ക്നെസ്സ്നുള്ള സ്പെസിമെൻസിനായിരുന്നു മറുവശത്ത് ഡഗ്ഡേൽ പറഞ്ഞു തിൻ പ്ലേറ്റുകൾക്കു ഇത് ഒരു സ്ട്രിപ്പ് പോലെയാണ് അതാണ് മറ്റൊരു തീവ്രത തന്നിരിക്കുന്ന സ്പെസിമെൻസിന്റെ തിക്ക്നെസ്സ്നു പ്ലാസ്റ്റിക് സോൺ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനാൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ചർച്ചയെല്ലാം ഫൈനൈറ്റ് എലെമെന്റ് സോല്യൂഷനിൽ നിന്നോ പരീക്ഷണത്തിൽ നിന്നോ കാണുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മൾ നേരത്തെ നടത്തിയ ചർച്ച അപ്പ്രോക്സിമേറ്റ് അനലെറ്റിക്കൽ സമീപനങ്ങളായിരുന്നു നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി സ്പെസിമെൻ തിക്ക്നെസ്സ്നു കുറുകെ തുല്യമല്ല ഒരു വ്യതിയാനം നിലവിലുണ്ട് ഡഗ്ഡെയ്ലിന്റെ സമീപനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിശോധനയിൽ പോലും നിങ്ങൾക്ക് ആ തെളിവുകൾ ഉണ്ടായിരുന്നു ഉപരിതലത്തിൽ പ്ലാസ്റ്റിക് സോൺ എങ്ങനെയാണെന്നും ഒരു തിൻ പ്ലേറ്റിനുപോലും അത് നടുക്ക് എങ്ങനെയാണെന്നും നിങ്ങൾ കണ്ടു ഇപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ഒരു സ്പെസിമെൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ പോകുന്നു കൂടാതെ നമ്മൾ ഒരു ചർച്ചയും നടത്തി ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ പ്ലെയിൻ സ്ട്രസിനെയും പ്ലെയിൻ സ്ട്രെയ്നിനെയും നമ്മൾ എന്ത് വിളിക്കും എന്ന് എനിക്ക് ഒരു തിക്ക് സ്പെസിമെൻ ഉണ്ടെങ്കിൽ ഉപരിതലം പ്ലെയിൻ സ്ട്രെസ്സായും ഇന്റീരിയർ പ്ലെയിൻ സ്ട്രെയിനായും പെരുമാറുന്നതായി ഞാൻ പരിഗണിക്കും അതിനാൽ പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതിയിലും ഞാൻ അത്തരം ഒരു ആശയം ഉപയോഗിക്കും അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി സ്പെസിമെന്റെ ആഴത്തിനു അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എന്നതാണ് അതിനാൽ അതാണ് സംഗ്രഹിച്ചിരിക്കുന്നത് സ്പെസിമെന്റെ ഉപരിതലം ചുരുങ്ങാൻ തയ്യാറാണ് കൂടാതെ പ്ലാസ്റ്റിക് സോണിന്റെ ആകൃതി ഉപരിതലത്തിലെ പ്ലെയിൻ സ്ട്രെസ് കേസായി കണക്കാക്കാം ഫ്രാക്ചർ മെക്കാനിക്സിന്റെ കാര്യത്തിൽ പ്ലെയിൻ സ്ട്രെസ്സും പ്ലെയിൻ സ്ട്രെയിനും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഉപരിതലത്തിൽ പ്ലെയിൻ സ്ട്രെസ് കേസുകളിൽ ആകൃതിയാണ് കാണുന്നത് സ്പെസിമെന്റെ ഇന്റീരിയറിൽ ആകൃതി പ്ലെയിൻ സ്ട്രെയിൻ കേസിനായി കണക്കാക്കാം ന്യായമായ ഒരു രേഖാചിത്രം തയ്യാറാക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഫലത്തിന്റെ ആദ്യ സെറ്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്ലോഡിംഗിന്റെ പുനർവിതരണം പരിഗണിച്ചില്ലെങ്കിൽ പ്ലാസ്റ്റിക് സോണിന്റെ വ്യതിയാനം ഇപ്രകാരമാണ് അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കണം ക്രാക്ക് ഇതുപോലെയാണ് നിങ്ങൾക്ക് സ്പെസിമെന്റെ തിക്നെസ്സ് B എന്നാണ് ഉപരിതലത്തിൽ ആകൃതി ഇതുപോലെയാണ് ഉപരിതലത്തിന്റെ ആന്തരികത്തിൽ ആകൃതി ഒരു ചിത്രശലഭം പോലെയാണ് എനിക്ക് ഈ സ്ലിപ്പിംഗ് നടക്കുന്നു എനിക്ക് പ്ലാസ്റ്റിക് സോണിന്റെ ലെങ്ത് ക്രാക്ക് അക്ഷത്തിൽ ഇതുപോലെ നൽകിയിരിക്കുന്നു ഇവിടെ കാണുന്നത് എല്ലാം നിങ്ങളുടെ മോഡ് I ഐസോക്രോമാറ്റിക്സ്സിനു സമാനമാണ് നോക്കൂ ആളുകൾ രണ്ടാമത്തെ ടേം അതായത് T സ്ട്രെസ് ഉൾപ്പെടുത്തി ഫൈനൈറ്റ് എലെമെന്റ്സ് കണക്കുകൂട്ടലും നടത്തിയിട്ടുണ്ട് അവർ പ്ലോട്ട് ചെയ്തതൊക്കെ ഇതിന് സമാനമാണ് അതിനാൽ ഇത് സ്പെസിമെന്റെ ആഴത്തെക്കുറിച്ച് ഒരു ധാരണ നൽകുന്നു സ്പെസിമെൻ തിക്നെസ്സ്നു കുറുകെ പ്ലാസ്റ്റിക് സോൺ വ്യത്യാസപ്പെടുന്നു അതിന്റെ ഏകദേശ രൂപം കാണുന്നത് എങ്ങനെയെന്നാൽ ഉപരിതലം ഒരു പ്ലെയിൻ സ്ട്രെസ് സാഹചര്യം പോലെയും ഇന്റീരിയർ പ്ലെയിൻ സ്ട്രെയിൻ സാഹചര്യം പോലെ പ്രവർത്തിക്കുന്നു ഇത് നിങ്ങളുടെ മോഡ് I ഐസോക്രോമാറ്റിക്സ്സിനു സാമ്യമുള്ളതാണ് ഞാൻ പുനർവിതരണം പരിഗണിക്കുന്നുവെന്ന് കരുതുക ഏത് രീതിയിലാണ് ഈ സോണുകൾ മാറുന്നത് നിങ്ങൾ ഇത് നിരീക്ഷിക്കുക തുടർന്ന് പകർത്തുക എന്താണ് സംഭവിക്കുന്നത് ആന്തരിക സ്ഥലങ്ങളിൽ അത് വർദ്ധിക്കുകയും ഉപരിതലം ചുരുങ്ങുകയും ചെയ്യുന്നു അതിനാൽ ഞാൻ എന്തുചെയ്യും ഞാൻ മുഴുവൻ കാര്യങ്ങളും വീണ്ടും ചെയ്യും ലോഡിംഗിന്റെ പുനർവിതരണം പരിഗണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് ഇതാണ് സ്ലിപ്പ് ഉപരിതലത്തിൽ സംഭവിക്കുന്നത് ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവ ബട്ടർഫ്ളൈ ഷേപ്പ് പ്ലാസ്റ്റിക് സോൺ എന്നറിയപ്പെടുന്നു കാരണം ഇത് അങ്ങനെ കാണപ്പെടുന്നുവെന്ന് പരീക്ഷണങ്ങൾ സ്ഥിരീകരിക്കുന്നു അത് വളരെ പ്രധാനമാണ് അവ മോഡ് I ഐസോക്രോമാറ്റിക്സിന് സമാനമാണ് നിങ്ങൾ പുനർവിതരണം പരിഗണിക്കുകയാണെങ്കിൽ ആനിമേഷൻ നിരീക്ഷിക്കുക ഇത് ചുരുങ്ങുകയും അത് വർദ്ധിക്കുകയും ചെയ്യും അതിനാൽ ഇത് നിങ്ങളുടെ കുറിപ്പുകളിൽ വരയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വ്യത്യാസം കാരണം നിങ്ങൾക്ക് കാണാൻ എളുപ്പമല്ലായിരിക്കാം എന്നിരുന്നാലുംപുനർവിതരണം ചെയ്യുമ്പോൾ ഇത് എങ്ങനെ മാറുന്നുവെന്ന് നിങ്ങൾ കണ്ടു അതിനാൽ സ്പെസിമെൻ തിക്ക്നെസ്സ് അനുസരിച്ചു എങ്ങനെ പ്ലാസ്റ്റിക് സോൺമാറുന്നുവെന്ന് നമ്മൾ കണ്ടു ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് സോൺ എങ്ങനെ മാറുന്നു എന്ന് ഇപ്പോൾ നമ്മൾ കാണേണ്ടതുണ്ട് അതും ആളുകൾ പഠിച്ചു ഹാൻ റോസെൻഫീൽഡ് എന്നിവരുടെ കാര്യത്തിൽ പ്ലാസ്റ്റിക് സോൺ ഈ ആകൃതിയിൽ ആണെന്നു നമ്മൾ കണ്ടു ഈ ആളുകൾ വിശദീകരണം നൽകിയിരുന്നു അതിനാൽ നമുക്ക് പ്ലാസ്റ്റിക് സോൺ എങ്ങനെയാണ് ക്രാക്ക് ടിപ്പിന് സമീപം നിർണ്ണയിക്കപ്പെടുന്നതെന്നും അത് അകലം കൂടുമ്പോൾ എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നതെന്നും കാണേണ്ടി വരും അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇന്ന് ഈ ആനിമേഷനുകൾ നിരീക്ഷിക്കുക നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു സ്കെച്ച് ഉണ്ടാക്കാൻ കഴിയും കുറഞ്ഞ സ്ട്രെസ് ലെവലിൽ ഒരാൾ ഹിഞ്ച് ടൈപ്പ് പ്ലാസ്റ്റിക് സോൺ നിരീക്ഷിക്കുന്നു ഹൈ സ്ട്രെസ് ലെവലുകളിൽ പ്ലാസ്റ്റിക് സോൺ പ്രദർശിപ്പിക്കുന്നത് ക്രാക്ക്ന് മുന്നിൽ സമാന്തരമായ ദിശയിൽ ഉള്ള ക്രാക്ക് പ്ലെയിനിൽ ആയിരിക്കും അതാണ് സംഭവിക്കുന്നത് ഒപ്പം നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഓർക്കുക പ്ലെയിനുകളിൽ മാക്സിമം ഷിയർ സ്ട്രെസ് ലഭിക്കുന്നത് വ്യത്യസ്തമായ പ്ലെയിൻ സ്ട്രെയിനിലും പ്ലെയിൻ സ്ട്രെസ്സിലും ആണ് നോക്കൂ ഇത് വളരെ പ്രധാനമാണ് അത് സ്വാധീനിക്കുന്നു പ്ലെയിൻ സ്ട്രെയിനിലെ സ്ലിപ്പ് പ്ലെയിൻസ് ഇപ്പോൾ ക്രാക്ക് ടിപ്പിന് വളരെ അടുത്തുള്ള ഒരു സന്ദർഭം ഞാൻ എടുക്കാം ഇതാണ് മാക്സിമം ഷിയർ ഉള്ള പ്ലെയിൻ അത് വ്യത്യസ്തമാണ് ഇക്കാരണത്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ലിപ്പ് സംഭവിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലൊരു സ്ലിപ്പ് സംഭവിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള പ്ലെയിനുകൾ ഉണ്ട് അത് ഇതു പോലെയാണ് സംഭവിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഘട്ടങ്ങളുണ്ട് പ്ലെയിനുകൾക്കിടയിൽ സ്ലിപ്പ് സംഭവിക്കുന്നുണ്ട് ഒരു ടീയറിങ് ആക്ഷൻ ഇവിടെ സംഭവിക്കുന്നതോടൊപ്പം ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു അതിനാൽ ഞാൻ ആനിമേഷൻ സീക്വൻസ് ആവർത്തിക്കാം നിങ്ങൾ അതു നിരീക്ഷിക്കുക പ്ലെയിൻ വ്യത്യസ്തമാണ് ഇത് xy പ്ലെയിനിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ലിപ്പ് സംഭവിക്കും ഇത് ഇവിടെ മാഗ്നിഫൈ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ സ്ലിപ്പ് സംഭവിക്കുന്നു ഇതുമൂലം നിങ്ങൾക്ക് ക്രാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ടാകും ടീയറിങ് കൊണ്ട് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു പ്ലെയിൻ സ്ട്രെസിലെ സ്ലിപ്പ് പ്ലെയിൻസ് ഇപ്പോൾ ദൂരങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതു പോലുള്ള ഒരു പ്ലെയിൻ നോക്കുകയാണ് അവിടെ എനിക്ക് പ്രധാനമായും പ്ലെയിൻ സ്ട്രെസ് ആണ് ഉള്ളത് മാക്സിമം ഷിയർ ഉള്ള പ്ലെയിനുകൾ ശരിക്കും പ്ലെയിനു പുറത്താണ് അതിനാൽ ഞാൻ പ്ലെയിൻ സ്ട്രെസ് എന്നു പറയുമ്പോൾ ചിന്തിക്കരുത് എല്ലാം അവശേഷിക്കുന്നത് പ്ലെയിനിൽ ആണ് അത് അങ്ങനെയല്ല അതിനാലാണ് ഞങ്ങൾ സ്ട്രെസ് ടെൻസറും സ്ട്രെയിൻ ടെൻസറും നോക്കിയത് നിങ്ങൾക്ക് ആനിമേഷൻ ഇവിടെ കാണാം നിങ്ങൾ സ്പെസിമെന്റെ വശത്തേക്ക് നോക്കുമ്പോൾ സ്ലിപ്പ് 45 ഡിഗ്രിയിൽ നടക്കുന്നത് കാണാം കാരണം ഇതാണ് നിങ്ങളുടെ മാക്സിമം ഷിയർ സ്ട്രെസ് ഉള്ള പ്ലെയിൻ പ്ലാസ്റ്റിക് സോണിൽ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് സ്പെസിമെൻ ലെങ്ങ്തിന് ഉടനീളം പ്ലെയിൻ സ്ട്രെയ്നിൽ നിന്നും പ്ലെയിൻ സ്ട്രെസിലേക്കുള്ള പരിവർത്തനം വാസ്തവത്തിൽ നിങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോയി സ്പെസിമെൻ എങ്ങനെ കാണുന്നുവെന്ന് നോക്കുക ക്രാക്ക് സർഫേസും ഫ്രാക്ചർ സർഫേസും ഡിലിനെയറ്റിംഗ് ചെയ്യുന്ന സന്ദർഭം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതിനാൽ തുടക്കത്തിൽ ടിയറിങ് ആക്ഷൻ കാരണം ഒരു ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു ഒടുവിൽ നിങ്ങൾക്ക് ഒരു ഷിയർ ലിപ്പ് ഉണ്ട് ഇതിന് പരീക്ഷണാത്മക തെളിവുകൾ നമ്മുടെ പക്കലുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം സ്പെസിമെന്റെ അവസാനം നിങ്ങൾക്ക് 45 ഡിഗ്രിയിൽ സ്ലിപ്പ് നടക്കുന്നു എന്നു എനിക്ക് കാണിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്കത് ഒരു ഒബ്ജെക്ടിവയായി ഉണ്ടെങ്കിൽ പരീക്ഷണ ഫലം നിങ്ങൾ കാണുന്നു ഇത് ഉപരിതലത്തിൽ ഇതു പോലെയാണ് ക്രാക്ക് ടിപ്പിന് സമീപം അറ്റത്ത് 45 ഡിഗ്രിയിൽ സ്ലിപ്പ് പ്ലെയിനുകൾ നിങ്ങൾക്കു കാണാം റോസെൻഫീൽഡ് ഡായ് ഹാൻ എന്നിവർ ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്തു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടുമാണ് ക്രാക്ക് ടിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ ആളുകൾക്ക് കഴിഞ്ഞുവെന്ന് ഇത് മനസ്സിലാക്കിത്തരുന്നു അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡഗ്ഡെയ്ലിന്റെ മോഡലാണ് നോക്കിയത് തുടർന്ന് ക്രാക്ക് ലെങ്തിന്റെ വിപുലീകരണത്തിനു എന്താണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചു നോക്കി മോഡിഫൈഡ് ക്രാക്ക് ലെങ്ത് ഉപയോഗിച്ച് സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടറും നമ്മൾ വിലയിരുത്തി എങ്ങനെ പ്ലാസ്റ്റിക് സോൺ സ്പെസിമെൻ തിക്ക് നെസ്സ് അനുസരിച്ച് മാറുന്നുവെന്ന് നമ്മൾ പരിശോധിച്ചു തുടക്കത്തിൽ ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നിർണ്ണയിക്കുന്നത് പ്ലെയിൻ സ്ട്രെസ്സും തുടർന്ന് പ്ലെയിൻ സ്ട്രയിനും ആണ് മാക്സിമം ഷിയർ സ്ട്രെസിന്റെ പ്ലെയിനുകൾ പ്ലെയിൻ സ്ട്രെസ്സിനും പ്ലെയിൻ സ്ട്രെയിനിനും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് സോൺ ഇതുപോലെ പ്രത്യക്ഷപ്പെടുന്നത്